ഈ പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ടൈമിംഗ് ഡ്രൈവൺ പ്ലെയ്സ്മെന്റിനെക്കുറിച്ചാണ് നേരത്തെയുള്ള പ്രഭാഷണങ്ങളിൽ തെറ്റായ വഴികൾ തിരിച്ചറിയുന്നതിനായി നിങ്ങൾ ഒരു സർക്യൂട്ടിന്റെ സ്റ്റാറ്റിക് അനാലിസിസ് നടത്തുന്ന വിവിധ സമയ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിനാൽ ചില സമയ സംബന്ധമായ നിയന്ത്രണങ്ങൾ തൃപ്തിപ്പെടുത്താനും ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ചില നടപടികൾ സ്വീകരിക്കാനും കഴിയും ഈ സമയത്തെ ബജറ്റുകളിൽ ചിലത് ഉൾപ്പെടുത്താനോ പരിഷ്ക്കരണങ്ങൾ നടത്താനോ കഴിയുന്ന തരത്തിൽ ചില ഭൌതിക രൂപകൽപനകളോ ഭൌതിക മാറ്റങ്ങളോ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് കാണേണ്ട നടപടികൾ എന്തെല്ലാമാണെന്ന് കാണാം ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ചില സമയ പരിമിതികൾക്ക് വിധേയമായി ബ്ലോക്കുകൾ എങ്ങനെ സ്ഥാപിക്കാമെന്ന് നമ്മൾ നോക്കും അതിനാൽ ഇ ടൈമിംഗ് അൽഗോരിതം അല്ലെങ്കിൽ പ്ലേസ്മെന്റ് അൽഗോരിതം എന്നിവയ്ക്ക് അപ്പുറമാണ് ഞാൻ നേരത്തെ ചർച്ച ചെയ്തതാണ് കാരണം ആ സമയത്ത് നമ്മൾ സമയ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ല നമ്മൾ ഇപ്പോൾ നെറ്റ്ലിസ്റ്റ് ആവശ്യകത ബ്ലോക്കുകളുടെ വലുപ്പങ്ങൾ പിന്നുകളുടെ സ്ഥാനം മുതലായവ പരിശോധിച്ചു ഞങ്ങളുടെ ലക്ഷ്യം ലേഔട്ട് വലുപ്പം കുറയ്ക്കുകയും പരസ്പരബന്ധത്തിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കുകയും ചെയ്യുക രണ്ടിന്റെയും ചില തൂക്കമുള്ള തുക എന്നാൽ ഇപ്പോൾ മൂന്നാമത്തെ പാരാമീറ്റർ ചില സമയ പരിമിതികളും വരുന്നു ചില സമയ പരിമിതികൾ പാലിക്കുന്ന വിധത്തിൽ ഞങ്ങൾ ബ്ലോക്കുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് നോക്കാം അതിനാൽ ടൈമിംഗ് ഡ്രൈവൺ പ്ലേസ്മെന്റ് ടിഡിപി ഞാൻ ചുരുക്കത്തിൽ പരാമർശിക്കുന്നു സർക്യൂട്ട് ഡിലേയ് ഒപ്റ്റിമൈസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു നിർബന്ധമായും പ്രദേശവും വയർ നീളവും മാത്രം എല്ലാ സമയ പരിമിതികളും തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഇത് ചെയ്യുന്നത് അതിനാൽ ചില സമയ പരിമിതികൾ തെറ്റായ പാതയുമായി പൊരുത്തപ്പെടുന്നതായി നമ്മൾ കണ്ടു അതിനാൽ ആത്യന്തികമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധ്യമായ ഏറ്റവും വലിയ ക്ലോക്ക് ആവൃത്തി നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ഞങ്ങളുടെ അന്തിമ ലക്ഷ്യം ഇതിനായി ഞങ്ങൾ സ്റ്റാറ്റിക് ടൈമിംഗ് അനലൈസർ ഒരു ഉപകരണമായി ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ നിർണായക നെറ്സ് തിരിച്ചറിയാൻ STA നിങ്ങൾക്ക് നൽകുന്നതെന്തും ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ചില ആവർത്തനങ്ങൾ ചെയ്യേണ്ടതായി വന്നേക്കാം കാരണം നിങ്ങൾ സ്റ്റാറ്റിക് വിശകലനം നടത്തുമ്പോൾ നിങ്ങൾ പരസ്പരബന്ധങ്ങളുടെ ചില എസ്റ്റിമേറ്റുകൾ ആരംഭിക്കുന്നു നിങ്ങൾ ഒരു പ്ലെയ്സ്മെന്റ് നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റുകൾ എവിടെ നിന്ന് ലഭിക്കും അതിനാൽ ഇത് യഥാർത്ഥത്തിൽ കൈകോർത്ത് പോകാം ഇതൊരു ആവർത്തന പ്രക്രിയ ആയിരിക്കും ടൈമിംഗ് ഡ്രൈവൺ പ്ലെയ്സ്മെന്റ് ഇത് ചെറുതാക്കാൻ ലക്ഷ്യമിടുന്നു ഈ പരാമീറ്ററുകളിൽ ഒന്നോ രണ്ടോ അർത്ഥമാക്കുന്നത് തീർച്ചയായും നെഗറ്റീവ് സ്ലാക്കുകളുടെ അടിസ്ഥാനത്തിൽ സമയ ലംഘനം ഇല്ലാതാക്കാൻ ഇത് ശ്രമിക്കും എന്നാൽ നിങ്ങൾക്ക് അത് അളക്കാൻ കഴിയുന്ന 2 തരം 2 വഴികളുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഏറ്റവും മോശം നെഗറ്റീവ് സ്ലാക്ക് അളക്കാൻ കഴിയും വലുപ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ നെഗറ്റീവ് മൂല്യം ഉള്ള സ്ലാക്ക് മൂല്യം നിങ്ങൾ കണ്ടെത്തും അതിനാൽ അത് ഏറ്റവും മോശം മൂല്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നെഗറ്റീവ് സ്ലാക്കുകളും സംഗ്രഹിച്ച് അവിടെ മൊത്തം നെഗറ്റീവ് മൂല്യം കാണാൻ കഴിയും അതിനാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനാൽ ഈ T ടൈമിംഗ് എൻഡ് പോയിന്റുകളുടെ ഗണമായി ഞങ്ങൾ പരാമർശിക്കുന്നു അതിനാൽ ഈ ഏറ്റവും മോശം നെഗറ്റീവ് സ്ലാക്ക് നിർവ്വചിക്കാവുന്നതാണ് ഓരോ നെറ്റ് ടൈമിംഗ് എൻഡ് പോയിന്റുകളിലുമുള്ള സ്ലാക്ക് ഇവിടെ T യുടെതാണ് അവിടെ T എന്നത് ടൈമിംഗ് എൻഡ് പോയിന്റുകളുടെ കൂട്ടമാണ് അപ്പോൾ ടൈമിംഗ് എൻഡ് പോയിന്റ് എന്താണ് നിങ്ങളുടെ കോമ്പിനേഷണൽ സർക്യൂട്ട് അതിനാൽ നിങ്ങൾ ഒന്നുകിൽ ഒരു ഔട്ട്പുട്ടിനോട് പൊരുത്തപ്പെടുന്നു അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലേക്ക് പോകാം എന്നതിനാൽ ഔട്ട്പുട്ട് പോകുന്ന സ്ഥലങ്ങൾ അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് ഇവയെ സാധാരണയായി ടൈമിംഗ് എൻഡ് പോയിന്റുകൾ എന്നാണ് വിളിക്കുന്നത് ഒരു ക്ലോക്ക് സൈക്കിളിൽ എന്താണ് ചെയ്യേണ്ടത് എന്നത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഒന്നുകിൽ പ്രാഥമിക ഔട്ട്പുട്ടുകൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്കുള്ള ഇൻപുട്ട് ഇത് ഏറ്റവും മോശം നെഗറ്റീവ് സ്ലാക്ക് ആണ് മൊത്തം നെഗറ്റീവ് സ്ലാക്ക് നിങ്ങൾ അത് കാണുന്നു അതിനാൽ സ്ലാക്ക് ടൌ 0 ൽ കുറവാണെങ്കിൽ അവ കൂട്ടിച്ചേർക്കുക നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുന്ന 2 പാരാമീറ്ററുകൾ ഇവയാണ് അവയിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും ഇപ്പോൾ ടൈമിംഗ് ഡ്രൈവെൻ പ്ലേസ്മെന്റ് ടെക്നിക്കുകളെ വിശാലമായി 3 തരങ്ങളായി തരംതിരിക്കാം ഒന്ന് നെറ്റിസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് നിങ്ങൾ നെറ്സ് വ്യക്തിഗതമായി നോക്കുന്നു മൊത്തം പാതകൾ നോക്കരുത് ഓരോ ഗേറ്റ് ഔട്ട്പുട്ട്ടിനും നിങ്ങൾ പറയുന്നു ഫാനൌട്ട് ഉണ്ടെങ്കിൽ അത് നെറ്റസാണ് മറ്റൊരു ഗേറ്റിന് മറ്റൊരു നെറ്റ് ഉണ്ട് അതിനാൽ നിങ്ങൾ ഒരു സമയം ഒരു നെറ്റ് നോക്കി ആ നിശ്ചിത ഗേറ്റ് അല്ലെങ്കിൽ മൊഡ്യൂൾ ടൈമിംഗ് ആവശ്യകത അനുസരിച്ച് ആ പ്രത്യേക നെറ്റ് മൂല്യം ഒപ്റ്റിമൈസ് ചെയ്യുന്ന വിധത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നാൽ വീണ്ടും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഓരോ നെറ്റിനും ഒരു നിശ്ചിത സമയ ബജറ്റ് ഉണ്ടായിരിക്കണം എന്നതാണ് നിങ്ങൾക്ക് ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിയായി ചെയ്യാൻ കഴിയില്ല കാരണം ഈ നെറ്റിന് 5 മിനിറ്റ് പറയാനുള്ള പരമാവധി ഡിലെ ഉണ്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് 5 ൽ ഉള്ളതാണോ ശരിയല്ലേ എന്ന് പരിശോധിക്കാനാകൂ രണ്ടാമത്തെ തരം പാത്ത് അടിസ്ഥാനമാക്കിയുള്ളതാണ് അവിടെ നിങ്ങൾ മുഴുവൻ പാതയും നോക്കുന്നു പാതയുടെ സമയം ഒപ്റ്റിമൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു മൂന്നാമത്തേത് സംയോജിപ്പിച്ചേക്കാം നിങ്ങൾ വ്യക്തിഗതമായി നെറ്സ്സിലോ പാതയിലോ നോക്കുന്നില്ല മറിച്ച് ബന്ധിതമായ മുഴുവൻ പ്രശ്നവും ഒരൊറ്റ ഫ്രെയിംവർക്ന് കീഴിൽ സംയോജിപ്പിക്കുക ഞാൻ പറഞ്ഞതുപോലെ നെറ്റ് അധിഷ്ഠിത സാങ്കേതികത നിങ്ങൾ ചിലതരം ഡിലെ വരുത്തേണ്ടതുണ്ട് നിങ്ങൾ നെറ്റ്സിന് കുറച്ച് ഡിലെ നൽകേണ്ടതുണ്ട് അതിനാൽ ഈ വ്യക്തിഗത നെറ്സ്സിന്റെ സമയത്തിനോ ദൈർഘ്യത്തിനോ നിങ്ങൾക്ക് ചില തരത്തിലുള്ള ഉയർന്ന പരിധി നിശ്ചയിക്കാനാകും നെറ്റ് വെയ്റ്റിംഗിനായി നിങ്ങൾക്ക് ചില രീതികളും ചെയ്യാവുന്നതാണ് അതിനാൽ ഏത് നെറ്സ് നിർണായകമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അതിനാൽ നിർണായക നെറ്സ്സിനു ഉയർന്ന മുൻഗണന അല്ലെങ്കിൽ ഉയർന്ന വെയ്റ് നൽകാം അതിനാൽ ഒരു പ്രാരംഭ പ്ലെയ്സ്മെന്റിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് നടത്താം അതിനുശേഷം നെറ്സ്സിന്റെ നിർണ്ണായകത തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നു അവയിൽ ഏത് നെറ്സ് നിർണായകമാണ് അവർക്ക് ഉയർന്ന വെയ്റ് നൽകേണ്ടതെന്ന് അതിനാൽ നിങ്ങൾ അവ സ്ഥാപിക്കുമ്പോഴെല്ലാം നെറ്സ്സിന്റെ ഉയർന്ന വെയ്റ്ന് മുൻഗണന നൽകുക ഞാൻ പറഞ്ഞതുപോലെ പാത്ത് അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികതയിൽ നിന്ന് വ്യത്യസ്തമായി അവർ എല്ലാ സമയവും നിർണായക പാത കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് ഇൻപുട്ട് മുതൽ ഔട്പുട്ടുകൾ വരെ അവർ വ്യക്തിഗത നെറ്സ് നോക്കുന്നില്ല ഇവ കൂടുതൽ കൃത്യതയുള്ളതാണ് കാരണം ഇൻപുട്ട് ഔട്ട്പുട്ട് ആവശ്യകതകളിൽ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ട് വ്യക്തിഗത നെറ്സ്സിന്റെ ആവശ്യകതയല്ല എന്നാൽ വീണ്ടും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പ്രശ്നം പല സർക്യൂട്ടുകൾക്കും പാതയുടെ എണ്ണം അതിവേഗം വളരാൻ കഴിയും എന്നതാണ് അതിനാൽ വ്യക്തിഗത പാത കൈകാര്യം ചെയ്യുന്നത് പ്രായോഗികമായ ഒന്നായിരിക്കില്ല അതിനാൽ നിങ്ങൾ നെറ്റ് അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ പാത്ത് അടിസ്ഥാനമാക്കിയുള്ള രണ്ട് സമീപനങ്ങളും പ്ലെയ്സ്മെന്റ് അൽഗോരിതം ഉപയോഗിച്ച് കൈകോർത്ത് പോകേണ്ടതുണ്ട് അതിനാൽ ഒരുതരം ഇൻക്രിമെന്റൽ നടപ്പിലാക്കൽ ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾക്ക് പ്ലെയ്സ്മെന്റ് ക്രമാനുഗതമായി പരിഷ്ക്കരിക്കാനും സമയവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു ഫീഡ്ബാക്ക് ലഭിക്കും അതിനാൽ സമയവും ഈ പ്ലെയ്സ്മെന്റും ഈ 2 പോകണം കൈകോർത്തു അതിനാൽ മുമ്പത്തെ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ആദ്യം ചെയ്യേണ്ടതുണ്ട് തുടർന്ന് ഇത് ചെയ്യണം പക്ഷേ ഇവിടെ വീണ്ടും ഒരു വിഷമമുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു അതിനാൽ നിങ്ങൾ പ്ലെയ്സ്മെന്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വയർ ദൈർഘ്യം ലഭിക്കില്ല നിങ്ങൾ സമയം എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കില്ല നല്ല പ്ലേസ്മെന്റ് അതിനാൽ ആവർത്തന ഘട്ടവും വർദ്ധനയും ഉണ്ടായിരിക്കണം അവ ഒരുമിച്ച് കൈകോർത്ത് പോകണം അതിനാൽ വിപരീതമായി മൂന്നാമത്തെ സമീപനവും ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് അവർ ഒരുതരം ഗണിതശാസ്ത്ര ഫോർമുലേഷൻ ഉപയോഗിക്കുന്നു അവർ ചില നിയന്ത്രണങ്ങൾ രൂപപ്പെടുത്തുന്നു ഈ പരിമിതികളിൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് STA യുടെ ചില ഫലങ്ങൾ ഉൾക്കൊള്ളിച്ചേക്കാം ഞങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ പ്രായോഗികമായി ചില വ്യാവസായിക ഡിസൈൻ ഫ്ലോ വലിയ പ്രവർത്തനക്ഷമതയുള്ള ഡിസൈനുകൾ കൈകാര്യം ചെയ്യുന്നു പ്രാരംഭ പ്ലെയ്സ്മെന്റ് സമയത്ത് അവ സമയപ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നില്ല കാരണം നിങ്ങൾ പ്ലെയ്സ്മെന്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കില്ല അതിനാൽ പ്രാരംഭ ഘട്ടത്തിൽ അവർ സമയക്രമീകരണ രീതികൾ ഉൾക്കൊള്ളുന്നില്ല പക്ഷേ തുടർന്നുള്ള ആവർത്തനങ്ങളിൽ അവർ അത് ചെയ്യുന്നു അതിനാൽ ഇത് അർത്ഥമാക്കുന്നു ഇപ്പോൾ നെറ്റ് അടിസ്ഥാനമാക്കിയുള്ള ടെക്നിക്കുകളിലേക്ക് വരുമ്പോൾ ഈ സമീപനങ്ങൾ നെറ്റ് വെയിറ്റുകളുമായി ബന്ധപ്പെട്ട അളവിലുള്ള മുൻഗണനകൾ ചുമത്തുന്നു ഇത് ഒരു പ്രത്യേക നെറ്റ് എത്ര നിർണായകമാണെന്ന് സൂചിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില തരത്തിലുള്ള ഡിലെ ബജറ്റുകൾ നൽകാം ഡിലെയുടെ ചില പരിധികൾ നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ ഈ നെറ്റ് വളരെ നിർണായകമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ വല അത്ര നിർണായകമല്ല ഇത് ഒരു മാർഗ്ഗമാണ് അല്ലെങ്കിൽ മറ്റൊരു വിധം നിങ്ങൾക്ക് കുറച്ച് ഉയർന്ന പരിധി നൽകാം അതാണ് ഈ വലയ്ക്കായി എന്റെ പരമാവധി ഡിലെ ബജറ്റ് ഇതാണ് നിങ്ങൾ ആ ബജറ്റിനുള്ളിൽ ഒതുങ്ങേണ്ടിവരും വ്യക്തമാക്കാൻ 2 വഴികളുണ്ട് ഇപ്പോൾ പ്രാരംഭ ഘട്ടത്തിൽ നെറ്റ് വെയ്റ്റുകൾ കൂടുതൽ ഫലപ്രദമാകും കാരണം ഡിലെ ബജറ്റുകൾ ആ ഘട്ടത്തിൽ കണക്കാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് ചില വെയ്റ് പറയാൻ കഴിയും ചില നെറ്സ് മറ്റുള്ളവയേക്കാൾ കൂടുതൽ നിർണ്ണായകമാണ് എന്നാൽ തുടർന്നുള്ള ആവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഡിലെ വരുത്തുന്ന ബജറ്റുകൾക്കായി പോകാം അതിനാൽ സമയ അനാലിസിസ് ഫലങ്ങൾ കൂടുതൽ കൃത്യത കൈവരിച്ചുകഴിഞ്ഞാൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഡിലെ ബജറ്റ് എസ്റ്റിമേറ്റുകളും ലഭിക്കൂ ഇതിനായി നിർദ്ദേശിച്ചിട്ടുള്ള നിലവിലുള്ള ചില രീതികൾ നെറ്റ് വെയ്റ്റിംഗ് അവ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനാൽ ഞങ്ങൾ നേരത്തെ കണ്ട ഒരു പരമ്പരാഗത പ്ലെയ്സ്മെന്റ് ഉപകരണം ഇത് റൂട്ടിംഗിന് മതിയായ ഇടമുണ്ടോ എന്നത് മൊത്തം വയർ നീളവും വഴക്കവും ഒപ്റ്റിമൈസ് ചെയ്യുന്നു പക്ഷേ സമയത്തിന് പുറമേ ഉപകരണത്തിന് മൊത്തം തൂക്കമുള്ള വയർ ദൈർഘ്യം കുറയ്ക്കാനും കഴിയും അവിടെ ഈ വെയ്റ് നിർണ്ണായകതയുടെ അളവുകോലാണ് അതിനാൽ ഓരോ വയർ നീളവും ഒരു വെയ്റ് നിശ്ചയിക്കാം അതിനാൽ ഉയർന്ന വെയ്റ് കൂടുതൽ നിർണായകമാണ് അതിനാൽ നിങ്ങൾക്ക് കുറച്ച് വെയ്റ് നിശ്ചയിക്കാനും വയർ ദൈർഘ്യം കുറയ്ക്കുന്നതിനുള്ള ഈ പ്രശ്നം വെയിറ്റഡ് വയർ ലെങ്ത് മിനിമൈസേഷൻ പ്രശ്നത്തിലേക്ക് വിവർത്തനം ചെയ്യാനും കഴിയുമെങ്കിൽ ഈ മുൻഗണന പരോക്ഷമായി കണക്കിലെടുക്കാവുന്നതാണ് പ്ലെയ്സ്മെന്റ് അവകാശത്തിനായുള്ള കോസ്ററ് പ്രവർത്തനം പരിഷ്ക്കരിക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾ നെറ്റ് വെയ്റ്റുകൾ അസൈൻ ചെയ്യുന്ന രീതി സ്റ്റാറ്റിക്കലായോ ഡയനാമിക്കലായോ ചെയ്യാം അതിനാൽ നിർദ്ദേശിച്ചിട്ടുള്ള ചില സമീപനങ്ങൾ നമുക്ക് കാണാം സ്റ്റാറ്റിക് നെറ്റ് വെയ്റ്റുകൾ പ്ലെയ്സ്മെന്റ് പ്രക്രിയ ആരംഭിക്കുന്നതിനുമുമ്പ് അവ അപ്രിയോറിയായി കണക്കാക്കപ്പെടുന്നതിനാൽ അവയെ സ്റ്റാറ്റിക് എന്ന് വിളിക്കുന്നു കൂടാതെ പ്രക്രിയയിൽ മാറ്റം വരുത്തരുത് സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസിലൂടെ കണക്കാക്കപ്പെടുന്ന സ്ലാക്ക് മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവ അടിസ്ഥാനപരമായി നിർണ്ണയിക്കുക അല്ലെങ്കിൽ കണക്കാക്കുന്നത് അതിനാൽ ആശയം കൂടുതൽ വിമർശനാത്മകമാണ് അതായത് ചെറിയ സ്ലാക്ക് വെയ്റ് കൂടുതലായിരിക്കണം അതിനാൽ നിർദ്ദേശിക്കപ്പെട്ട 2 വഴികളുണ്ട് നെറ്റ് വെയ്റ്റുകളുടെ വ്യത്യസ്തമായ മൂല്യങ്ങൾ 2 ഒമേഗ 1 ഒമേഗ 2 എന്നീ മൂല്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് അതിൽ പറയുന്നു അനുബന്ധ സ്ലാക്ക് പോസിറ്റീവ് ആണെങ്കിൽ ഒമേഗ 1 നൽകുക സ്ലാക്ക് മൂല്യം നെഗറ്റീവ് ആണെങ്കിൽ ഒമേഗ 2 നൽകുക അതിനാൽ ഒമേഗ 1 സാധാരണയായി ഒമേഗ 2 നെക്കാൾ കുറവാണ് ഒമേഗ 2 ന് ഉയർന്ന വെയ്റ് ഉണ്ട് സ്ലാക്ക് മൂല്യം നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ആ നെറ്സ്സിനു ഉയർന്ന മുൻഗണന നൽകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായ മൂല്യം ഉണ്ടായിരിക്കാമെന്ന് നിർദ്ദേശിക്കുന്ന മറ്റൊരു രീതി ഉണ്ട് നിങ്ങൾക്ക് പവർ ആൽഫയിലേക്ക് 1 സ്ലാക്ക് ടി ആയി w കണക്കാക്കാം അവിടെ T സർക്യൂട്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത്ത് ഡിലെ ആണ് കൂടാതെ നിങ്ങൾക്ക് ക്രമീകരിക്കാൻ കഴിയുന്ന ചില നിർണായക ഘടകം നിർണായക എക്സ്പോണന്റ് ആണ് നിങ്ങൾക്ക് ആൽഫയുടെ മൂല്യം പരിഷ്ക്കരിക്കാനും അതിലൂടെ നിങ്ങൾക്ക് സ്ലാക്കിന്റെ വ്യതിയാനം w യുടെ മൂല്യത്തെ എത്രമാത്രം ബാധിക്കുമെന്നും നിങ്ങൾക്ക് മാറ്റാനാകും നെറ്റ് വെയ്റ് സംവേദനക്ഷമതയെ അടിസ്ഥാനമാക്കിയുള്ള മറ്റ് ചില രീതികളും ഉണ്ടായിരുന്നു അതിനാൽ ഇത് ഉപയോഗിച്ച പദപ്രയോഗമായിരുന്നു ഞാൻ ഇവിടെ കൂടുതൽ വിശദമായി പോകുന്നില്ല അതിനാൽ അവർ സ്ലാക്കിന്റെ ചില കണക്കാക്കിയ മൂല്യം ഉപയോഗിച്ചു സ്ലാക്ക് ടാർഗെറ്റ് ടാർഗെറ്റ് സ്ലാക്ക് ആണ് നിങ്ങൾക്ക് എത്ര സ്ലാക്ക് വേണം ആൽഫ ഒരു പാരാമീറ്ററാണ് ബീറ്റയും ഒരു പാരാമീറ്ററാണ് മൊത്തം വെയ്റ് നെഗറ്റീവ് സ്ലാക്ക് സെൻസിറ്റിവിറ്റി എന്താണ് എന്നാണ് ഇതിനർത്ഥം SW സ്ലാക്ക് പറയുന്നു അതായത് നെറ്റ് വെയ്റ് മാറുകയാണെങ്കിൽ അത് TNS മൂല്യത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും അതുപോലെ നിങ്ങൾക്ക് TNS സ്ലാക്ക് ഉണ്ടാകാം ഇത് സ്ലാക്ക് മൂല്യത്തിനും ഇത് TNS മൂല്യത്തിനും വേണ്ടിയാണ് അതിനാൽ നെറ്റ് വെയ്റ്റിലെ മാറ്റം എത്രമാത്രം സ്വാധീനം ചെലുത്തും അതിനാൽ ഇത് നിർദ്ദേശിക്കപ്പെട്ട ചില രീതികളാണ് ഡൈനാമിക് നെറ്റ് വെയ്റ്റിംഗിനായി പ്ലെയ്സ്മെന്റ് ആവർത്തനങ്ങളിൽ അവ പരിഷ്ക്കരിക്കുകയും ഡയനാമിക്കലി മാറ്റുകയും ചെയ്യുന്നു വ്യക്തമായും ഇത് കൂടുതൽ ഫലപ്രദമാകാം കാരണം നിലവിലെ സാഹചര്യത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ വെയ്റ് മാറ്റുന്നു നിങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ പഴയ മൂല്യങ്ങൾ കാലഹരണപ്പെട്ടേക്കാം അതിനാൽ ഇതൊരു ആവർത്തന മൂല്യമാണ് അതിനാൽ ഡെൽറ്റ L അടിസ്ഥാനമാക്കി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ആവർത്തന k യിലെ സ്ലാക്ക് മൂല്യം കണക്കാക്കാം ഇത് വയർ നീളത്തിലും ഡിലേയ് മാറ്റത്തിന്റെ ആഘാതമായിരിക്കും ഡെൽറ്റ L കൊണ്ട് ഗുണിക്കുന്ന ചില ഘടകങ്ങൾ നിങ്ങൾ ഈ ഒരു സ്ലാക്ക് K മൈനസ് 1 കുറയ്ക്കുക അത് നിങ്ങളുടെ പുതിയ സ്ലാക്ക് ആയിരിക്കും നിങ്ങൾ സ്ലാക്ക് കണക്കാക്കിയുകഴിഞ്ഞാൽ wk കണക്കാക്കാനുള്ള വഴികളുണ്ട് അതിനാൽ ചില രീതികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചില പ്രധാന വിമർശനാത്മക നെറ്സ് തിരഞ്ഞെടുക്കുകയോ തരം തിരിക്കുകയോ ചെയ്യുന്നു അതിനാൽ ഇത് ഒന്നാമത്തേതാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു വേരിയബിൾ vk നൽകുന്നു അല്ലാത്തപക്ഷം നിങ്ങൾ ഒരു താഴ്ന്ന മൂല്യം നൽകുന്നു ഈ പ്ലസ് 1 ഉപയോഗിക്കരുത് ഒരിക്കൽ നിങ്ങൾ vk കണക്കാക്കിയാൽ നിങ്ങൾക്ക് നെറ്റ് വെയ്റ്റ് കണക്കാക്കാം മുമ്പത്തെ ആവർത്തനമെന്ന നിലയിൽ നെറ്റ് വെയ്റ്റ് 1 പ്ലസ് vk കൊണ്ട് ഗുണിക്കുന്നു നിങ്ങൾ ഇത് ക്രമാനുഗതമായി അപ്ഡേറ്റ് ചെയ്യുക ഇവയാണ് ഉപയോഗിച്ചിട്ടുള്ള ചില രീതികൾ എന്നാൽ സംയോജിത സമീപനം ഇവിടെ രസകരമാണ് നിങ്ങൾ ഗണിതപരമായി പ്രകടിപ്പിക്കുന്ന ഒപ്റ്റിമൈസേഷന്റെ മുഴുവൻ പ്രക്രിയയും ലീനിയർ പ്രോഗ്രാമിംഗ് സോൾവർ എൽപി സോൾവർ പോലുള്ള ഒരു സോൾവർ ഉപയോഗിക്കുന്നു പ്രശ്നം അത് ഈ നിയന്ത്രണങ്ങൾ നിറവേറ്റുന്ന തരത്തിൽ എന്തായിരിക്കും അതിനാൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇവിടെ നോക്കാം നെറ്റ് അടിസ്ഥാനമാക്കിയുള്ള രീതികളിൽ സമയത്തിന്റെ ആവശ്യകതകൾ നെറ്റ് വെയ്റ്റുകളിലേക്കോ നിയന്ത്രണങ്ങളിലേക്കോ മാപ്പ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നു പാത്ത് അടിസ്ഥാനമാക്കിയുള്ള രീതികൾ പാതകൾക്കുള്ള സമയത്തെ നേരിട്ട് നോക്കുമ്പോൾ എന്നാൽ പാത അടിസ്ഥാനമാക്കിയുള്ള രീതികൾ അളക്കാനാകില്ല പാതകളുടെ എണ്ണം വളരെ വേഗത്തിൽ വളരും സ്കേലബിളിറ്റിക്കും നല്ല പ്രകടനത്തിനും ടൈമിംഗ് അനാലിസിസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം പരിമിതികളും വസ്തുനിഷ്ഠമായ പ്രവർത്തനവും പിടിച്ചെടുക്കാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ ഉപയോഗിക്കുന്നു അതെങ്ങനെയാണ് പ്രവര്ത്തിക്കുന്നത് അത് യഥാർത്ഥത്തിൽ 2 തരം നിയന്ത്രണങ്ങൾ വ്യക്തമാക്കുന്നു ഒന്നിനെ ഭൌതികമായ പരിമിതികൾ എന്ന് വിളിക്കുന്നു അതാണ് പ്ലെയ്സ്മെന്റ് അതിനാൽ സെൽസ് സ്ഥിതിചെയ്യുന്നതും സമയക്കുറവും സ്ലാക്ക് മൂല്യങ്ങളെ ബാധിക്കുന്നു അതിനാൽ കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില അധിക നിയന്ത്രണങ്ങൾ ചില വൈദ്യുത തടസ്സങ്ങൾ എന്നിവയും ഉൾപ്പെടുത്താം എന്നാൽ ഞങ്ങൾ ഈ 2 ഫിസിക്കൽ ടൈമിംഗ് എന്നിവയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് ഫിസിക്കൽ കൺസ്ട്രയിന്റ് ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു കൂട്ടം V സെല്ലുകളും ഒരു കൂട്ടം E നെറ്റുകളും നൽകി നമ്മൾ xv yv ഒരു സെല്ലിന്റെ കേന്ദ്രമായി നിർവചിക്കുന്നു ഈ ചിഹ്നം വന്നിട്ടില്ലെന്ന് കാണുക ചെറിയ v ക്യാപിറ്റൽ V യിൽ പെടുന്നു അതിനാൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് ഒരു സെൽ ഉണ്ടെന്ന് കരുതുക ഞാൻ സ്ഥാപിക്കുന്ന ഈ ബ്ലോക്ക് അതിനെ V എന്ന് വിളിക്കുന്നു ഈ സെന്റർ പോയിന്റ് ഈ സെല്ലിന്റെ കേന്ദ്രം ഞാൻ അതിനെ കോർഡിനേറ്റ് xv എന്നും yv എന്നും വിളിക്കുന്നു നെറ്റ് E ലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള സെല്ലുകളുടെ കൂട്ടത്തെയാണ് V സൂചിപ്പിക്കുന്നത് ഇടത് വലത് താഴെ മുകളിൽ ഈ ബൌണ്ടിംഗ് ബോക്സിന്റെ 4 അതിരുകളുടെ കോർഡിനേറ്റുകളെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് ഒരു വലത് അവകാശത്തെ സൂചിപ്പിക്കുന്നു E പ്രതിനിധീകരിക്കുന്ന ബൌണ്ടിംഗ് ബോക്സാണ് ഇതെന്ന് കരുതുക E ഒരു നെറ്റ് നെ സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം ബന്ധിപ്പിക്കേണ്ട ചില പോയിന്റുകൾ ഉണ്ട് എന്നാണ് കൂടാതെ ഈ ബൌണ്ടിംഗ് ബോക്സ് ഉപയോഗിച്ച് എല്ലാ പരസ്പരബന്ധങ്ങളും പൂർത്തിയാകുമെന്ന അനുമാനത്തോടെ അൽപ്പം വലിയ ബോണ്ടിംഗ് ബോക്സ് ഉപയോഗിക്കുന്നു ഇപ്പോൾ ചില അറ്റങ്ങൾ ഇടത് വലത് മുകളിൽ താഴെ പരിഗണിക്കുക അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടത് കാണുക എന്നത് ചില x കോർഡിനേറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് E യുടെ ഇടതുവശമാണ് E യുടെ വലത് ഇടത് E വലത് E എന്നിവ ചില x കോർഡിനേറ്റുകളെ സൂചിപ്പിക്കുന്നു മുകളിലും താഴെയുമുള്ളത് ചില y കോർഡിനേറ്റുകളെയാണ് E യുടെ മുകളിലും E യുടെ താഴെയും അവ ചില y കോർഡിനേറ്റുകളെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ നിയന്ത്രണങ്ങൾ എങ്ങനെയാണെന്നും അവസാനത്തേത് ഡെൽറ്റ X Ve ഡെൽറ്റ Y Ve എന്നിവ സെന്ററിൽ നിന്നുള്ള പിൻ ഓഫ്സെറ്റുകളെ സൂചിപ്പിക്കുന്നുവെന്നും VS E മായി ബന്ധിപ്പിച്ചിരിക്കുന്ന പിൻ ആണെന്നും ഇത് കാണും അതിനാൽ പിൻസ് സ്ഥിതിചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ ബോണ്ടിംഗ് ബോക്സ് നിർവ്വചിച്ചുകഴിഞ്ഞാൽ എല്ലാ പിന്നുകളും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ സെന്ററിൽ നിന്ന് ഞങ്ങൾ ഡെൽറ്റ V ഡെൽറ്റ X എന്നിവ x y ഓഫ്സെറ്റുകൾ അളക്കുന്നു അതിനാൽ അവർ ഈ ബോണ്ടിംഗ് ബോക്സിന് പുറത്തായിരിക്കരുത് അവരെല്ലാവരും ഈ ബോക്സിനുള്ളിലായിരിക്കണം നമുക്ക് ഇപ്പോൾ നിയന്ത്രണങ്ങൾ നോക്കാം അതിനാൽ ഫിസിക്കൽ പരിമിതികൾ ആദ്യ പരിമിധികളുടെ സേറ്സ് പറയുന്നു നെറ്റ് E ന്റെ എല്ലാ പിൻകളും ബൌണ്ടിംഗ് ബോക്സിനുള്ളിലായിരിക്കണം എന്ന് അവർ നിങ്ങളോട് പറയുന്നു ഈ 4 നിയന്ത്രണങ്ങളാൽ ഇവ പിടിച്ചെടുത്തു ഇടത് E മധ്യഭാഗത്തിന്റെ x കോർഡിനേറ്റിന് തുല്യമായിരിക്കണം ആ പിൻസെറ്റിന് ആ E പിൻ ന്ന് ഈ നെറ്സ്സിൽ ഉൾപ്പെടുന്ന ഓരോ v യ്ക്കും ചില പിൻ വേണ്ടി v ഇതായിരിക്കണം അതുപോലെ വലതുഭാഗം ഇതിന് തുല്യമായതിനേക്കാൾ വലുതായിരിക്കണം അതിനാൽ അത് ആ പരിധിക്കുള്ളിലായിരിക്കണം താഴെ വീണ്ടും y മൂല്യങ്ങൾക്ക് തുല്യമായിരിക്കണം മുകളിൽ തുല്യത്തേക്കാൾ വലുതായിരിക്കണം അത് അർത്ഥമാക്കുന്നത് ഈ v ആ സാങ്കൽപ്പിക ദീർഘചതുരത്തിനുള്ളിലായിരിക്കണം രണ്ടാമതായി മൊത്തം നെറ്റ് ദൈർഘ്യം നിങ്ങൾ ഓർക്കുന്ന പകുതി പാരാമീറ്ററായി കണക്കാക്കുന്നു ഇത് നടപടികളിൽ ഒന്നായിരുന്നു ഇതിനെ ഹാഫ് പാരാമീറ്റർ വയർ ലെങ്ത് എന്ന് വിളിക്കുന്നു ഇത് ഒരു ദീർഘചതുരം ആയതിനാൽ നിങ്ങൾ ഹാഫ് പരാമീറ്റർ എടുക്കുക അതിനാൽ നീളവും വീതിയും ചെയുക അതിനാൽ ഇടത്തുനിന്ന് വലത് നിന്ന് ഇടത് മുകളിൽ മൈനസ് താഴെ മൈനസ് എന്നിങ്ങനെ പറയാം അത് നിങ്ങളുടെ പകുതി പരാമീറ്ററായിരിക്കും അതിനാൽ നിങ്ങളുടെ പകുതി പാരാമീറ്റർ ഇതുപോലെ കണക്കാക്കാം വലത് മൈനസ് ഇടത് പ്ലസ് മുകളിൽ മൈനസ് താഴെ അതിനാൽ സമയ പരിമിതികൾ നിങ്ങൾക്ക് ഇതുപോലെ ചേർക്കാൻ കഴിയും അതിനാൽ ചില നൊട്ടേഷനുകൾ ടി ഗേറ്റ് vi vo ഇതാണ് ഒരു ഇൻപുട്ട് പിൻ vi മുതൽ ഒരു പ്രത്യേക സെല്ലിന്റെ ഔട്ട്പുട്ട് പിൻ vo വരെയുള്ള ഗേറ്റ് ഡിലേയ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത് ടി നെറ്റ് e uo vi ഡിലേയ് സെൽ u ന്റെ പിൻയിൽ നിന്നുള്ള ഒരു നെറ്റ് ഡിലേയ് ചില ഔട്ട്പുട്ട് പിൻ u0 ഇത് ഒരു u സെല്ലിൽ നിന്നാണ് വരുന്നത് u0 ഔട്ട്പുട്ട് പിൻ ആണ് അത് v ഇൻപുട്ട് പിൻയിലേക്ക് പോകുന്നു അതിനെ vi എന്ന് വിളിക്കുന്നു സ്റ്റാറ്റിക് ടൈo അനാലിസിസിനു നിന്ന് നിങ്ങൾക്ക് ലെബികുന്നത്ത് നെറ്റ് ഡിലേയ് AAT ഉം ആണ് പിൻ j യിലെ യഥാർത്ഥ വരവ് സമയമാണിത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ചില സമയ പരിമിതികളുണ്ട് ആദ്യത്തേത് നിങ്ങൾ പറയുന്നത് v സെല്ലിന്റെ ഓരോ ഇൻപുട്ട് പിൻക്കും vi യിലെ വരവ് സമയം മുമ്പത്തെ ഔട്ട്പുട്ട് പിൻ uo യ്ക്കും നെറ്റ് ഡിലേയ്ക്കും എത്തിച്ചേരുന്ന സമയമായിരിക്കും അതിനാൽ vi യുടെ AAT എന്നത് മുമ്പത്തെ ഔട്ട്പുട്ട്ടിലെ വരവ് സമയവും uo ൽ നിന്ന് vi ലേക്കുള്ള ഈ നെറ്റ് ഡിലേയ് ആയിരിക്കണം ഇത് വ്യക്തമാണ് ഇത് ഒന്നാണ് അതുപോലെ രണ്ടാമത്തെ തടസ്സം ഒരു സെല്ലിന്റെ ഓരോ ഔട്ട്പുട്ട് പിൻ vo ക്കും vo യിലെ വരവ് സമയം vo യിലെ എത്തിച്ചേരൽ സമയം അതിന്റെ ഓരോ ഇൻപുട്ടിന്റെയും വരവ് സമയത്തേയും ഗേറ്റ് ഡിലേയ്ക്കാളും കൂടുതലോ തുല്യമോ ആയിരിക്കണം അതിനാൽ ഒരു ഗേറ്റിന് ഔട്പുട്ടിന്റെ വരവ് സമയം ഇൻപുട്ടിന്റെ വരവ് സമയവും ഗേറ്റിന്റെ ഡിലെയും തുല്യമായിരിക്കണം ബന്ധപ്പെട്ട മൂന്നാമത്തെ തടസ്സം സ്ലാക്ക് ആണ് ഒരു തുടർച്ചയായ സെൽ tau ന്റെ ഓരോ പിൻസിനും RAT മൈനസ് AAT തമ്മിലുള്ള വ്യത്യാസമായി സ്ലാക്ക് കണക്കാക്കാം എന്ന് നമുക്ക് പറയാം അതാണ് നിർവചനം അതിനാൽ RAT ഉം AAT ഉം തമ്മിലുള്ള വ്യത്യാസമായി ഞങ്ങൾ കണക്കാക്കുന്ന ഓരോ ടൈമിംഗ് പോയിന്റിനും സ്ലാക്ക് ഈ RAT AAT കണക്കുകൂട്ടൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ് എന്നിവ നിങ്ങൾ കാണുന്നു അവ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനമായി ലഭ്യമാകണം ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ആ മൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനാൽ സ്റ്റാറ്റിക് ടൈമിംഗ് അനലൈസർ നിങ്ങൾക്ക് ലഭ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു തീർച്ചയായും സ്ലാക്ക് മൂല്യങ്ങൾ 0 ലേക്ക് പരിമിതപ്പെടുത്താം കാരണം നിങ്ങൾ അർത്ഥമാക്കുന്നില്ല ഒരു പോസിറ്റീവ് സ്ലാക്ക് മൂല്യം വേണം കാരണം നിങ്ങൾ നേരത്തെ കണ്ടതിനാൽ ഞങ്ങൾ 0 സ്ലാക്ക് അൽഗോരിതം പോലുള്ള ഒന്ന് ഉപയോഗിക്കുന്നു അതിനാൽ എല്ലാ സ്ലാക്ക് മൂല്യങ്ങളും 0 ലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ ഒന്നുകിൽ നിങ്ങൾ അതിനെ 0 ലേക്ക് ഉയർത്തി അല്ലെങ്കിൽ ഒരു ചെറിയ പോസിറ്റീവ് മൂല്യം ഉപയോഗിക്കുക അങ്ങനെ സ്ലാക്ക് മൂല്യങ്ങൾ എല്ലാം ആ പരിധിക്കുള്ളിൽ 0 ന് അടുത്തെത്തും അതിനാൽ വസ്തുനിഷ്ഠമായ പ്രവർത്തനം 3 തരങ്ങളായിരിക്കാം അവയിൽ 3 എണ്ണം ഇവിടെ കാണിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് കൂടി ചേർക്കാം ആദ്യത്തേത് മൊത്തം നെഗറ്റീവ് സ്ലാക്ക് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് മൊത്തം നെഗറ്റീവ് സ്ലാക്ക് ഇതുപോലെ പ്രകടിപ്പിക്കാം പിൻസ് tau എന്നത് ഒരു സെൽ tau വിന്റെ ഒരു കൂട്ടമാണ് കൂടാതെ T എല്ലാ തുടർച്ചയായ മൂലകങ്ങളുടെയും അല്ലെങ്കിൽ അവസാന പോയിന്റുകളുടെയും കൂട്ടമാണ് അതിനാൽ നിങ്ങൾ എല്ലാ സിസ്റ്റത്തിന്റെയും സ്ലാക്ക് കണക്കാക്കുന്നു ഒരു കാര്യം പരാമർശിച്ചിട്ടില്ല ഇത് മൊത്തം നെഗറ്റീവ് സ്ലാക്ക് ആണെങ്കിൽ സ്ലാക്ക് tau p 0 ന് തുല്യമായിരിക്കണമെന്ന മറ്റൊരു വ്യവസ്ഥയും ഞങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ സ്ലാക്ക് tau p 0 എന്നതിനേക്കാൾ കുറവായിരിക്കുമെന്ന പരിമിതിയുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കുന്നതിനാൽ അത് 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അത് ഒരിക്കലും പോസിറ്റീവായിരിക്കില്ല അതിനാൽ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇത് അനുമാനിക്കാം സ്ലാക്ക് tau p യുടെ സംഗ്രഹം ഇത് നിങ്ങൾക്ക് മൊത്തം നെഗറ്റീവ് സ്ലാക്ക് നൽകും രണ്ടാമത്തെ വ്യവസ്ഥ നിങ്ങൾ ഏറ്റവും മോശം നെഗറ്റീവ് സ്ലാക്ക് ഒപ്റ്റിമൈസ് ചെയ്തേക്കാം പരമാവധി WNS നിങ്ങൾക്കറിയാവുന്ന പദപ്രയോഗം നിങ്ങൾക്കറിയാം അതിനാൽ WNS എല്ലാ tau p യ്ക്കും സ്ലാക്ക് ടൌ പിക്ക് തുല്യമായി കുറയും കൂടാതെ നിങ്ങൾക്ക് ചില വെയ്റ്റഡ് കോമ്പിനേഷനുകൾ ഉണ്ടാക്കാം നെറ്റ് വയറുകളുടെ ആകെ നീളത്തിന്റെ ആകെത്തുക ഏറ്റവും മോശമായത് പറയട്ടെ നെഗറ്റീവ് സ്ലാക്ക് WNS അതിനാൽ നിങ്ങൾക്ക് Le ഈ മുഴുവൻ നെറ്റുകൾക്കും പകുതി പാരാമീറ്റർ വയർ നീളമായി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ വയർ ഈ WNS നെഗറ്റീവ് സ്ലാക്ക് ഉപയോഗിക്കാം അതിനർത്ഥം ആൽഫ 0 നും 1 നും ഇടയിലുള്ള ഒരു പാരാമീറ്ററാകാം അതിനാൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രദേശത്തിന്റെ ആഘാതം നെറ്റിന്റെ നീളം സ്ലാക്ക് എന്നിവ നിയന്ത്രിക്കാൻ കഴിയും അതിനാൽ ഇവയാണ് ഇവിടെ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോക്കി സമയ സവിശേഷതയോ സമയ പാരാമീറ്ററുകളോ കണക്കിലെടുത്ത് എങ്ങനെ പ്ലേസ്മെന്റ് നടത്താമെന്ന് ഞങ്ങൾ നോക്കി ഞങ്ങൾ പ്ലെയ്സ്മെന്റ് നടത്തുമ്പോൾ നിങ്ങൾ നേരത്തെ കാണുന്നു ഞങ്ങൾ സമയത്തെ അവഗണിച്ചു ബ്ലോക്കുകളുടെ സ്ഥാനവും വയർ ദൈർഘ്യം കുറയ്ക്കുന്നതും മാത്രമാണ് ഞങ്ങൾ നോക്കിയത് ഇപ്പോൾ ഞങ്ങൾക്ക് അധിക പാരാമീറ്റർ വരുന്നു ഞങ്ങൾ സ്ലാക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഡിലേയ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു പ്ലേസ്മെന്റ് ടൂളും ടൈമിംഗ് അനാലിസിസ് ടൂളും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു പരിതസ്ഥിതി നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണ് ഞങ്ങൾ കുറച്ച് രീതികൾ പരാമർശിച്ചു കൂടുതൽ അഡ്വാൻസ് ടെക്നിക്കുകളും ലഭ്യമാണ് എന്നാൽ ഇവിടെ ഞങ്ങൾ അവ ചർച്ച ചെയ്തിട്ടില്ല അവർ ശരിക്കും കൈകോർത്ത് പ്രവർത്തിക്കുന്നു അവർക്ക് വലിയ ഡിസൈനുകളും കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം വ്യാവസായിക ഡിസൈനുകൾ വലുതാണ് സമയ സങ്കീർണ്ണത വലുതല്ലാത്ത ഒരു രീതി നമുക്കുണ്ടായിരിക്കണം തീർച്ചയായും ഞങ്ങൾ കൃത്യത പുലർത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മൾ അളവുകോലും നോക്കേണ്ടതുണ്ട് ഇന്നത്തെ സാഹചര്യത്തിലും മറ്റും പ്രായോഗികമായ വലിയ സർക്യൂട്ടുകൾ കൈകാര്യം ചെയ്യാൻ ഈ രീതിക്ക് കഴിയണം അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ടൈമിംഗ് ഡ്രൈവഡ് പ്ലെയ്സ്മെന്റിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയിലെ പ്രഭാഷണങ്ങളിൽ നമ്മൾ പിന്നീട് നോക്കുന്ന മറ്റ് പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് സമയബോധമുള്ള റൂട്ടിംഗ് ടൈമിംഗ് ഡ്രൈവഡ് റൂട്ടിംഗ് എന്നിവ ഞങ്ങൾ നോക്കും അതിനാൽ ചില ടൈമിംഗ് എസ്റ്റിമേറ്റുകളോ ടൈമിംഗ് ബഡ്ജറ്റുകളോ തൃപ്തിപ്പെടുന്ന നെറ്റ്കൾക്കുള്ള ജ്യാമിതി കണക്ഷനുകൾ എങ്ങനെ ഉണ്ടാക്കാം ഒടുവിൽ ടൈമിംഗ് വിശകലന ഉപകരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ചില ടൈമിംഗ് ബജറ്റുകൾ ഞങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ടിവരുമ്പോഴെല്ലാം നിങ്ങളുടെ നെറ്റ്ലിസ്റ്റിൽ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ പരിഷ്ക്കരണം എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഉപകരണങ്ങളിൽ ആ സമയ വിശകലനം അല്ലെങ്കിൽ ആവശ്യകതകൾ നിറവേറ്റാൻ കഴിയും ഇതോടെ നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലെത്തി